തരംഗങ്ങളും തരംഗ സമവാക്യങ്ങളും നമ്മൾ ചർച്ചചെയ്യുന്നത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളെക്കുറിച്ചാണ് കൂടാതെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ എങ്ങനെയാണ് വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ നിലനിൽപ്പിലേക്ക് നയിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് വൈദ്യുതകാന്തിക തരംഗങ്ങൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പരസ്പരം നിലനിർത്തുന്നതും വ്യാപിക്കുന്നതുമായ ഈ വൈദ്യുത കാന്തിക അസ്വസ്ഥതകളാണ് ഇത് പൂർണ്ണമായി മനസ്സിലാക്കാൻ തരംഗങ്ങളും തരംഗ സമവാക്യവും എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അതിനാൽ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ തരംഗ സമവാക്യം എന്താണ് അത് എവിടെ നിന്ന് വരുന്നു എന്താണ് തരംഗ പ്രതിഭാസം എന്ന് മനസിലാക്കാൻ നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കാൻ പോകുന്നു ഞാൻ സംസാരിക്കാൻ പോകുന്നത് നോൺഡിസ്പെർസീവ് തരംഗംളെക്കുറിച്ചാണ് നോൺഡിസ്പെർസീവ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ചലിക്കുമ്പോൾ വ്യാപിക്കാത്ത ഒരു തരംഗം എന്നാണ് അതിനാൽ ഒരു തരംഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു തരംഗം എന്നാൽ ഒരു ഭൌതിക കണിക ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുന്നതാണ് എന്നാണോ ഇല്ല എന്നാണ് അതിനുത്തരം ഉദാഹരണത്തിന് ജല തരംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ ഞാൻ ഒരു അനക്കം ഉണ്ടാക്കിയാൽ അത് പുറത്തേക്ക് പോകുന്നു പക്ഷേ വെള്ളം പുറത്തേക്ക് പോകുന്നത് നമ്മൾ കാണുന്നില്ല അതുപോലെ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു മർദ്ദ തരംഗം പോകുന്നു പക്ഷേ ഈ പ്രത്യേക തരംഗത്തിലൂടെ വായു ഒരു വശത്ത് നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നുവെന്ന് ഇതിനർത്ഥമില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു തരംഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഡിസ്റ്റർബൻസ് അഥവാ അസ്വസ്ഥതയുണ്ട് അതിനാൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ വായുവിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നു അതിൽ ഞാൻ ഒരു സമ്മർദ്ദ വ്യത്യാസം സൃഷ്ടിക്കുകയാണ് ആ മർദ്ദ വ്യത്യാസം സഞ്ചരിക്കുന്നു എന്നാൽ മെറ്റീരിയൽ കണിക ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നില്ല അതുപോലെ ജല തരംഗങ്ങളിൽ ഞാൻ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നു പക്ഷേ വെള്ളം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുന്നില്ല അതിനാൽ നമ്മൾ സംസാരിക്കുന്നത് x ആക്സിസിലേക്ക് ഒരു തരംഗം സഞ്ചരിക്കുന്നുവെന്ന് കരുതുക ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ t പൂജ്യം എന്ന സമയത്തുള്ള x എന്ന് വിളിക്കാം അത് മാറ്റമില്ലാതെ സഞ്ചരിക്കുന്നു അതിന്റെ അർത്ഥം അത് നീങ്ങുമ്പോൾ അത് അതേപടി നിലനിൽക്കുന്നു എന്നതാണ് അതിനാൽ അത് v t എന്ന ദൂരത്തേക്ക് നീങ്ങുന്നു എന്നതൊഴികെ അതിൻറെ ഫംഗ്ഷൻ അതേപടി തുടരുന്നു ഈ ഫംഗ്ഷനെ x t എന്നിവയുടെ പ്രവർത്തനമായി ഞാൻ എങ്ങനെ വിവരിക്കും ഫംഗ്ഷൻ സ്ഥാനം മാത്രം മാറിയതിനാൽ അത് f എന്നതിൽ ഉത്ഭവം v t വഴി മാറി അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ എനിക്ക് ഇത് f x മൈനസ് v t സമയം t 0 ന് തുല്യമായി എഴുതാം ഇത് f x മൈനസ് v t ആണ് ഇത് 0 ന് തുല്യമായ സമയത്ത് ഉള്ള f x ആണ് നമുക്ക് പറയാവുന്നത് ഡിസ്റ്റർബൻസ് സമാനമായി തുടരുന്നു പക്ഷേ v t എന്ന ദൂരം കൊണ്ട് ഇടവിട്ടാണ് സഞ്ചരിക്കുന്നത് അതിനാൽ പോസിറ്റീവ് x ആക്സിസിൽ വേഗത v ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ഒരു തരംഗത്തിന്റെ വിവരണമായി നമുക്കിതിനെ കണക്കാക്കാം സമാനമായ രീതിയിൽ ഈ തരംഗം വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാകും അപ്പോൾ അത് ദൂരം മൈനസ് v t വഴി നീങ്ങുന്നു ഈ അപ്പോൾ ഈ x 0 എന്നിവയിൽ ആയിരുന്ന ഫംഗ്ഷനെ f x t ആയി പോകുന്നു എന്ന് കാണിക്കാം അതിനെ f x പ്ലസ് v t 0 എന്ന് എഴുതാം അങ്ങനെ നീങ്ങുമ്പോൾ ഫംഗ്ഷൻ മാറുന്നു അത് നോക്കാൻ മറ്റൊരു വഴിയുണ്ട് സമയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുന്നുവെന്ന് കരുതുക ഇവിടെ X എന്നത് 0 ന് തുല്യമാണ് f x 0 t ആണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഞാൻ x ൽ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ അതേ സമയം f x t എന്നത് f x 0 t മൈനസ് x ഓവർ v എന്ന മുൻപത്തെ ഒരു സമയത്തിന് തുല്യമാണ് ഇതാണ് വലതുവശത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു തരംഗത്തിനെ പ്രതിനിധീകരിക്കുന്ന മറ്റൊരു രീതി തരംഗം ഇടതുവശത്തേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എനിക്ക് f x t എന്നത് f x 0 t പ്ലസ് x ഓവർ v എന്നതിന് തുല്യമാണ് ഒരു തരംഗത്തെ പ്രതിനിധീകരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണിത് സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത്

fxtfx0t xv fxtfx0txv വലതു വശത്തേക്കുള്ള തരംഗത്തിന് f x t എന്നത് f x മൈനസ് v t എന്നതിന് തുല്യമാണ് രണ്ടാമത്തെ പദം 0 ആയിരിക്കും അതിനാൽ ഞാൻ അത് എഴുതുന്നില്ല ഇടതു വശത്തേക്കുള്ള തരംഗത്തിന് f x plus v t എന്നും ആയിരിക്കും വലതു വശത്തേക്കുള്ള തരംഗത്തിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അതായത് d f by d x എന്നാൽ d f by d u ഗുണനം d u by d x ആയിരിക്കും ഇവിടെ u എന്നാൽ x മൈനസ് vt ക്ക് തുല്യമാണ് ഇത് എനിക്ക് d f by d u എന്ന് തന്നെ നൽകുന്നു അതുപോലെ d f by d t എന്നാൽ d f by d u ഗുണനം d u by d t ആയിരിക്കും ഇത് മൈനസ് v df by du ആകുന്നു ഇത് വലതു വശത്തേക്കുള്ള തരംഗത്തിന് d f by d x എന്നാൽ എന്നാൽ d f by d u ആണെന്ന് ഉടനടി വ്യക്തമാക്കുന്നു അതിനെ എനിക്ക് മൈനസ് 1 ഓവർ v d f by d t എന്ന് എഴുതാം വലത്തോട്ട് സഞ്ചരിക്കുന്ന തരംഗത്തിന്റെ തരംഗ സമവാക്യമാണിത് ഇടത്തേക്ക് സഞ്ചരിക്കുന്ന തരംഗത്തിന് ഈ അടയാളം പ്ലസ് ആയി മാറും

∂u∂t v∂f∂u ∂f∂x∂f∂u 1v∂f∂t അതിനാൽ എനിക്ക് വലതുവശത്തേക്ക് സഞ്ചരിക്കുന്ന തരംഗത്തിന് ഒരു സമവാക്യം ലഭിച്ചു അത് d f by d x എന്നാൽ മൈനസ് 1 ഓവർ v d f by d t എന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ഇടത്തേക്ക് സഞ്ചരിക്കുന്ന തരംഗത്തിന് 1 ഓവർ v d f by d t എന്നതിന് തുല്യമാണ് എന്ന് പറയാം രണ്ടിലും പൊതുവായി എനിക്ക് പറയാം മുകളിലെ d f by d x എന്നത് t യെ സംബന്ധിച്ച് ഒരു ഡെറിവേറ്റീവ് എടുത്ത് മൈനസ് 1 ഓവർ v കൊണ്ട് ഗുണിച്ചതിന് തുല്യമാണ് രണ്ടാമത്തെ കാര്യത്തിൽ d f by d x എന്നത് 1 ഓവർ v d f by d t എന്നതിന് തുല്യമാണ് ഇവ ഇടത്തോട്ട് സഞ്ചരിക്കുന്നതോ വലത്തേക്ക് സഞ്ചരിക്കുന്നതോ ആയ തരംഗ സമവാക്യമാണ് രണ്ടിന്റെയും ഒരു സൂപ്പർപോസിഷനായ ഒരു തരംഗം എങ്ങനെയായിരിക്കും സഞ്ചരിക്കാത്ത ഒരു തരംഗത്തെക്കുറിച്ച് എന്തു പറയണം അത് ഇടതുവശത്തേക്കാണോ അതോ വലതുവശത്തേക്കാണോ സഞ്ചരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും വ്യക്തമാക്കേണ്ടതുണ്ടോ നമ്മൾ അത് ചെയ്യുന്നില്ല പകരം ഈ രണ്ട് സമവാക്യങ്ങളും സംയോജിപ്പിച്ച് ഏതെങ്കിലും വിധത്തിൽ ഒരു പൊതു സമവാക്യം എഴുതുന്നു അത് ഇടത്തോട്ടോ വലത്തോട്ടോ സഞ്ചരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് വൈബ്രേറ്റ് ചെയ്യുന്നതുപോലെ നിശ്ചലമോ ആയ തരംഗമാകാം ആ സന്ദർഭത്തിൽ നിങ്ങൾ കണ്ടതുപോലെ നമ്മൾ d by d x എന്നാൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് 1 ഓവർ v d by d t ആണെന്ന് എഴുതിയിരുന്നു അതിൽ നിന്ന് നമുക്ക് രണ്ടാം തരംഗത്തിനെ d സ്ക്വയർ by d x സ്ക്വയർ എന്നാൽ 1 ഓവർ v സ്ക്വയർ d by d t സ്ക്വയർ എന്നെഴുതാം അതിനാൽ ഇടത്തേക്ക് സഞ്ചരിക്കുന്നതോ വലതുവശത്തേക്ക് സഞ്ചരിക്കുന്നതോ ആയ ഏത് തരംഗത്തിനും എനിക്ക് d സ്ക്വയർ f by d x സ്ക്വയർ എന്നാൽ 1 ഓവർ v സ്ക്വയർ d സ്ക്വയർ f by d t സ്ക്വയർ എന്നെഴുതാൻ കഴിയും ഇത് ഇടതുവശത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു തരംഗത്തെയോ വലതുവശത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു തരംഗത്തെയോ അല്ലെങ്കിൽ രണ്ടിന്റേയും സൂപ്പർപോസിഷനായ ഒരു തരംഗത്തെയോ അല്ലെങ്കിൽ ഒരു നിശ്ചല തരംഗത്തിനെയോ വിവരിക്കുന്ന സമവാക്യമാണ് ഒരു സിസ്റ്റത്തിലെ ഒരു ഡിസ്റ്റർബൻസിൻറെ ചലനത്തിനായി ഇതുപോലുള്ള ഒരു സമവാക്യം എനിക്ക് ലഭിക്കുമെങ്കിൽ അപ്പോൾ എനിക്ക് തൽഫലമായി v കൂടി ലഭിക്കും നമുക്ക് ഇത് ഉദാഹരണങ്ങളിലൂടെ നോക്കാം ∂x±1v∂t 2x21v22t2 2fx21v22ft2 ഉദാഹരണം 1 ഞാൻ ഒരു സ്ട്രിംഗിൽ ഉള്ള തരംഗം എടുക്കുന്നു അതായത് ഒരു സ്ട്രിംഗ് ഉണ്ട് അതിൽ ടെൻഷൻ T ഉണ്ട് കൂടാതെ ഒരു യൂണിറ്റ് ദൈർഘ്യത്തിലുള്ള അതിന്റെ ഭാരം mu ന് തുല്യമാണ് ഇവിടെ വ്യാപ്തി വളരെ ചെറുതാണ് ഞാൻ ഇവിടെ ഈ ഒരു ചെറിയ ഭാഗം എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനെ അനക്കുകയാണെങ്കിൽ തരംഗം പുരോഗമിക്കുമ്പോൾ ഈ ഭാഗം മുകളിലേക്കും താഴേക്കും നീങ്ങുന്നു കൂടാതെ അതിനുള്ള സമവാക്യം നമുക്ക് കണ്ടെത്താം ടെൻഷൻ കാരണം ഒരു പൂർവസ്ഥിതിയിൽ ആകുന്ന ശക്തി ഉള്ളതിനാൽ ഇത് മുകളിലേക്കും താഴേക്കും നീങ്ങുന്നു ഇനി നമുക്ക് ഈ ഭാഗം നോക്കാം ഇവിടെ ഈ രീതിയിൽ വലിക്കുന്ന ടെൻഷൻ T ഉണ്ട് ഇവിടേക്കും ഒരു ടെൻഷൻ ഉണ്ട് ഇത് ഈ വഴി വലിക്കുന്നു വലതുവശത്തുള്ള ഈ ടെൻഷന് രണ്ട് ഘടകങ്ങളുണ്ട് T കോസൈൻ ഓഫ് നമുക്ക് അതിനെ തീറ്റ 2 എന്നും ലംബ ഘടകത്തിനെ T സൈൻ തീറ്റ 2 എന്നും വിളിക്കാം ഈ കോൺ തീറ്റ 2 ആംഗിളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരിക്കും ഇടത് വശത്തുള്ള കോൺ ഇത് തീറ്റ 1 ന്റെ T കോസൈൻ ആയിരിക്കും കൂടാതെ ഈ ഘടകം T സൈൻ തീറ്റ 1 എന്നും ആകും അതിനാൽ ആകെ ലംബ ശക്തി T സൈൻ തീറ്റ 2 മൈനസ് T സൈൻ തീറ്റ 1 ആയിരിക്കും ഇവിടെ വ്യാപ്തി വളരെ ചെറുതാണെങ്കിൽ എനിക്ക് ഇതിനെ ഏകദേശം T തീറ്റ 2 മൈനസ് T തീറ്റ 1 എന്ന് എഴുതാം കൂടാതെ തിരശ്ചീന ഘടകം T മൈനസ് T ആണ് അത് 0 ആണ് അതിനാൽ ഈ രണ്ട് ലംബ ഘടകങ്ങളിലെ ബാലൻസ് കാരണം സ്ട്രിംഗ് മുകളിലേക്കും താഴേക്കും പോകുന്നു നമുക്ക് തീറ്റ 2 ഉം തീറ്റ 1 ഉം കണക്കാക്കാം ലംബ ഘടകംTsin2 Tsin1 തിരശ്ചീന ഘടകംT T0 അതിനാൽ നമ്മൾ ഈ സ്ട്രിംഗും അതിലെ ഒരു ചെറിയ ഭാഗവും ഇവിടെ നോക്കുന്നു ആകെ ഫോഴ്സ് T തീറ്റ 2 മൈനസ് തീറ്റ 1 ആയിരിക്കും ഞാൻ ഇവിടെ ഡെൽറ്റ x എന്ന നീളം എടുക്കുകയാണെങ്കിൽ തീറ്റ 1 എന്നാൽ ടാൻജന്റ് തീറ്റ 1 ആണ് കൂടാതെ ഈ ഡിസ്പ്ലേസ്മെൻറ് y എന്നതിനെ x ന്റെ ഫംഗ്ഷനായി ആയി എടുത്താൽ ടാൻജന്റ് തീറ്റ 1 നെ dx ന്റെ ഭാഗിക ഡെറിവേറ്റീവ് ആയി d y by d x എന്ന് എഴുതാവുന്നതാണ് y എന്നത് x t എന്നിവയുടെ ഫംഗ്ഷനായതിനാൽ ഞാൻ ഭാഗിക ഡെറിവേറ്റീവ് എഴുതുന്നു മറുവശത്ത് തീറ്റ 2 എന്നാൽ ടാൻ തീറ്റ 2 ന് തുല്യമാണ് അതേ സമയം അത് d y by d x എന്ന് എഴുതാവുന്നതാണ് ഇവിടെ y എന്നത് x പ്ലസ് ഡെൽറ്റ x t എന്നിവയുടെ ഫംഗ്ഷനാണ് ഇതിനെ എനിക്ക് x t എന്നിവയിലുള്ള d y by d x പ്ലസ് d സ്ക്വയർ x by d t സ്ക്വയർ ഡെൽറ്റ x എന്ന് എഴുതാംസ്ലൈഡ് സമയം 1324 കാണുക 1≈tan 1∂y∂xxt2tan 2∂y∂xxxt∂y∂xxt2yx2x അതിനാൽ ലംബമായ ബലം T തീറ്റ 2 എന്നത് d y by d x x t പ്ലസ് d സ്ക്വയർ y d x സ്ക്വയർ ഡെൽറ്റ x മൈനസ് d y by d x x t ആണ് ഇതിൽ d y by d x x t ഒഴിവാക്കുന്നു അപ്പോൾ ഇതാണ് എനിക്ക് ലഭിക്കുന്നത് ഈ ഫോഴ്സ് d സ്ക്വയർ y d x സ്ക്വയർ ഡെൽറ്റ x ന് തുല്യമാണ് കൂടാതെ ഇത് ഈ ചെറിയ കഷണത്തിന്റെ ത്വരണത്തിന് തുല്യമായിരിക്കണം അതിന്റെ ഭാരം mu ഡെൽറ്റ d സ്ക്വയർ y d x സ്ക്വയറായിരിക്കും അതാണ് ത്വരണം ഇവ രണ്ടും സംയോജിപ്പിച്ചാൽ ഡെൽറ്റ x ഇരുവശത്തുനിന്നും പോവുകയും നിങ്ങൾക്ക് d സ്ക്വയർ y d x സ്ക്വയർ എന്നാൽ mu ഓവർ T d സ്ക്വയർ y d t സ്ക്വയർ ലഭിക്കുന്നു ഇത് നമുക്ക് നേരത്തെ ലഭിച്ച തരംഗ സമവാക്യമാണ് അതിനാൽ ഈ സ്ട്രിംഗിൽ ഒരു തരംഗ ക്രമീകരണം ഉണ്ടാകും ഒരു ട്രാവലിംഗ് തരംഗമാകാം അല്ലെങ്കിൽ അത് ഒരു നിശ്ചല തരംഗമാകാം പക്ഷേ ഇത് സ്പീഡ് സ്ക്വയർ അതായത് v സ്ക്വയർ എന്നാൽ T ഓവർ mu ന് തുല്യമായി സജ്ജീകരിക്കാൻ പോകുന്ന തരംഗമാണ് അതിനാൽ ഒരു സിസ്റ്റത്തിൽ തരംഗ സമവാക്യം എങ്ങനെ ലഭിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണവും അത് സ്വയമേവ നിങ്ങൾക്ക് തരംഗത്തിന്റെ വേഗതയും നൽകുന്നു ലംബമായ ബലംT∂y∂xxt2yx2x ∂y∂xxtT2yx2xμ x2yt2 2yx2T2yt2v2T രണ്ടാമത്തെ ഉദാഹരണമായി x ദിശയിലുള്ള ഒരു ട്യൂബിലൂടെ സഞ്ചരിക്കുന്ന മർദ്ദ തരംഗം ഞാൻ എടുക്കും ഇതിനായി ഇതിൽ ഡെൽറ്റ x നീളമുള്ള ഗ്യാസിന്റെയോ ദ്രാവകത്തിന്റെയോ ഒരു ഭാഗം ഞാൻ പരിഗണിക്കുന്നു ഇത് p എന്ന സമ്മർദ്ദത്തിലാണ് കൂടാതെ നമ്മൾ ഇവിടെ ഡെൽറ്റ p എന്ന ഒരു അധിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു അങ്ങനെ ഇടത് വശത്ത് അത് y x ദൂരം നീങ്ങുന്നു ഈ മർദ്ദം സഞ്ചരിക്കുകയും അത് അതിന്റെ സ്ഥാനം മാറ്റുകയും ചെയ്യുന്നു അതിനാൽ വലത് വശത്ത് ഈ വരി y x പ്ലസ് ഡെൽറ്റ x വഴി നീങ്ങുന്നു കൂടാതെ ഇവിടെ മർദ്ദം മാറുന്നത് ഡെൽറ്റ p പ്ലസ് ഡെൽറ്റ 2 p എന്ന് മാറുന്നു ഇത് രണ്ടാമത്തെ ഓർഡറാണ് ഈ സമ്മർദ്ദ വ്യത്യാസം കാണാനും അത് ഏത് ശക്തി സൃഷ്ടിക്കുന്നു എന്നറിയാനും ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതിനെ നമ്മൾ എടുത്ത ഈ ചെറിയ ഭാഗത്തിന്റെ ത്വരണവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ലഭിക്കുന്ന സമവാക്യം എന്താണെന്ന് കാണാം ആദ്യം ഈ ഡെൽറ്റ p എന്താണ് ചെയ്യുന്നത് ഇത് വോളിയം മാറ്റുന്നു ഇവിടെയുള്ള ഈ ക്രോസ് സെക്ഷൻ A ആണെന്ന് അനുമാനിക്കുന്ന വോളിയത്തിലെ മാറ്റം നമുക്ക് ആദ്യം കണക്കാക്കാം ഇത് A y x പ്ലസ് ഡെൽറ്റ x മൈനസ് A y x അല്ലാതെ മറ്റൊന്നുമല്ല രണ്ട് ലംബ രേഖകൾക്കിടയിൽ നമ്മൾ എടുത്ത ഈ ഭാഗത്തിന്റെ അളവിലുള്ള മാറ്റമാണിത് ഇതിനെ നമുക്ക് A d y by d x ഡെൽറ്റ x എന്നെഴുതാം വോളിയത്തിലെ ഈ മാറ്റം ഇടത് വശത്തെ മർദ്ദം ഡെൽറ്റ p കൂടാതെ വലത് വശത്തെ ഡെൽറ്റ p പ്ലസ് ഡെൽറ്റ 2 p എന്നിവ മൂലമാണ് ഈ ഡെൽറ്റ 2 p എന്നത് ഈ ഭാഗത്തിന്റെ ത്വരണം വർദ്ധിപ്പിക്കുന്ന അസന്തുലിതമായ ശക്തിയാണ് അതിനാൽ ഈ ഡെൽറ്റ p യിൽ നിന്നാണ് കംപ്രഷൻ വരുന്നത് നിർവ്വചനം അനുസരിച്ച് ഡെൽറ്റ p എന്നത് d p by d v മടങ്ങ് ഡെൽറ്റ v ക്ക് തുല്യമാണ് എനിക്ക് ഇത് v d p d v ഡെൽറ്റ v ഓവർ v ആയി എഴുതാം ശ്രദ്ധിക്കുക ഈ അളവ് v d p d v ആണ് ബൾക്ക് മോഡുലസ് അതിനാൽ എനിക്ക് ഇത് മൈനസ് B ആയി എഴുതാം ഡെൽറ്റ v എന്നത് ഈ മൂലകത്തിന്റെ അളവിൽ A d y by d x ഡെൽറ്റ x ഓവർ വോളിയം A dy ആണ് അതിനാൽ A ഇവിടെ ഒഴിവാക്കി ഡെൽറ്റ p എന്നാൽ മൈനസ് B d y by d x ആയി നൽകിയിരിക്കുന്നു വോളിയത്തിലെ മാറ്റം Ayxx AyxA∂y∂xx p∂P∂VVV∂P∂VVV B∂y∂x അതിനാൽ നമ്മൾ കണക്കുകൂട്ടിയത് ഈ p മർദ്ദത്തിലുള്ള ട്യൂബിൽ ഒരു ഡെൽറ്റ p പ്രയോഗിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ വോളിയം മാറുന്നു ഈ ഡെൽറ്റ p മൈനസ് B d y by dx ആയി നൽകുന്നു വലതുവശത്തെ മർദ്ദം ഡെൽറ്റ p പ്ലസ് ഡെൽറ്റ 2 p ആണ് അതിനാൽ ഡെൽറ്റ p പ്ലസ് ഡെൽറ്റ 2 p എന്നാൽ x പ്ലസ് ഡെൽറ്റ x ൽ ഉള്ള മൈനസ് B d y by d x ആയിരിക്കും കൂടാതെ ഇത് x ൽ ഉള്ള മൈനസ് B d y by dx മൈനസ് B d സ്ക്വയർ y by d x സ്ക്വയർ തവണ ഡെൽറ്റ x ആകും അതിനാൽ അസന്തുലിതമായ ശക്തിയാണ് ഈ സമ്മർദ്ദം ഇടതുവശത്തേക്ക് പ്രവർത്തിക്കുന്നത് ഡെൽറ്റ p ഇവിടെ വലതുവശത്ത് പ്രവർത്തിക്കുന്നു അതിനാൽ അസന്തുലിതമായ ബലം B x ൽ ഉള്ള d y by d x പ്ലസ് B d സ്ക്വയർ y by d x സ്ക്വയർ തവണ ഡെൽറ്റ x മൈനസ് B x ൽ ഉള്ള d y by d x അല്ലാതെ മറ്റൊന്നുമല്ല ഇത് ഡെൽറ്റ p ഇതും ഡെൽറ്റ p പ്ലസ് ഡെൽറ്റ 2 പി ഈ പദങ്ങൾ ഒഴിവാക്കുകയും എനിക്ക് B d സ്ക്വയർ y by d x സ്ക്വയർ തവണ ഡെൽറ്റ x എന്ന അസന്തുലിതമായ ശക്തി ലഭിക്കുന്നു ഇവിടെ ഈ ഭാഗത്തിന് ഒരു ത്വരണം നൽകാൻ പോകുന്നു കൂടാതെ ആ ത്വരണം d സ്ക്വയർ y by d t സ്ക്വയർ ആകും കൂടാതെ ബലം ഈ ത്വരണത്തിന്റെ മടങ്ങ് ഭാരത്തിന് തുല്യമായിരിക്കണം കൂടാതെ ഈ ഭാഗത്തിന്റെ ഭാരം ഈ വോളിയത്തിൻറെ അളവായിരിക്കും A സാന്ദ്രത rho യുടെ ഡെൽറ്റ X മടങ്ങ് കൂടാതെ ഞാൻ ഇവിടെ നിന്ന് A അനുസരിച്ച് ഫോഴ്സിനായി എടുക്കണം ഇവിടെയുള്ള A യും എടുക്കണം നമുക്ക് രണ്ട് വശങ്ങളിലുള്ള A ഒഴിവാക്കാം നമ്മൾ ഈ ഡെൽറ്റ x ഒഴിവാക്കുന്നു അവസാനമായി B d സ്ക്വയർ y by d x സ്ക്വയർ എന്നത് rho d സ്ക്വയർ y by d t സ്ക്വയറിന് തുല്യമാണ് എന്ന സമവാക്യം നമുക്ക് ലഭിക്കുന്നു B2yx2ρ2yt2 അതിനാൽ സമവാക്യം d സ്ക്വയർ y by d x സ്ക്വയർ എന്നത് rho ഓവർ B d സ്ക്വയർ y by d t സ്ക്വയറിന് തുല്യമാണ് ഇത് എനിക്ക് ഉടൻ തന്നെ വേഗത സ്ക്വയർ എന്നാൽ B ഓവർ rho ആണെന്ന് നൽകുന്നു ഒരു മാധ്യമത്തിലെ ശബ്ദത്തിന്റെ വേഗത rho ഓവർ B യുടെ വർഗ്ഗമൂലമാണ് എന്ന സൂത്രവാക്യം നിങ്ങൾക്കറിയാമോ മൈനസ് v d p by d v ക്ക് തുല്യമായി B നമ്മൾ എഴുതിയപ്പോൾ അത് സ്ഥിരമായ താപനിലയാണോ അതോ അഡിയാബാറ്റിക് ആണോ എന്ന് നമ്മൾ വ്യക്തമാക്കിയില്ല നിങ്ങൾക്ക് നന്നായി അറിയാം വായുവിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു താപ കൈമാറ്റവും നടക്കില്ല എന്നത് അതിനാൽ നമ്മൾ സ്ലൈഡ് സമയം 2139 കാണുക B 0 ന് തുല്യമായ Q അല്ലെങ്കിൽ അഡിയാബാറ്റിക് B ആയി എടുക്കുന്നു അതിനാൽ ഞാൻ ഈ അഡിയാബാറ്റിക് B എഴുതട്ടെ ഞാൻ നിങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ചു അവിടെ ചലനത്തിന്റെ സമവാക്യം പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഒരു സമവാക്യം ലഭിച്ചു അത് തരംഗ സമവാക്യമാണ് അതിൽ നിന്ന് ആ അസ്വസ്ഥതയുടെ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ വേഗത അല്ലെങ്കിൽ ആ മാധ്യമത്തിലെ തരംഗത്തിന്റെ വേഗത എന്താണെന്ന് നമുക്ക് നിർണ്ണയിക്കാനാകും ഒടുവിൽ ഈ തരംഗ സമവാക്യത്തിൻറെ പരിഹാരം ഈ അസ്വസ്ഥത എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് എനിക്ക് നൽകുന്നു ഇപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേക ഉദാഹരണമാണ് സമതല തരംഗം അതിനാൽ ഇത് x നെ ആശ്രയിച്ചിരിക്കുന്നു വ്യാപ്തി മുഴുവനും y z എന്നിവയിൽ നിന്ന് സ്വതന്ത്രമാണ് ഉദാഹരണത്തിന് എനിക്ക് x y z എന്നിവ ഉണ്ടെങ്കിൽ ഒരു സമതല തരംഗത്തിന് ഈ തരംഗാഗ്രം ഉണ്ടായിരിക്കും അത് y z പ്രതലത്തിലുടനീളം ഒരേ വ്യാപ്തിയുള്ളതാണ് ഈ അസ്വസ്ഥത x ദിശയിലേക്ക് സഞ്ചരിക്കുന്നു ഇവിടെ നമ്മൾ ഹാർമോണിക് തരംഗങ്ങൾ പരിഗണിച്ചു അതിൽ y x t എന്നത് A sin 2 pi x ഓവർ ലാംഡ മൈനസ് v t എന്നതിന് തുല്യമാണ് ഇത് d സ്ക്വയർ y by d x സ്ക്വയർ എന്നാൽ മൈനസ് A 4 പൈ സ്ക്വയർ ഓവർ ലാംഡ സ്ക്വയർ സൈൻ 2 പൈ x ഓവർ ലാംഡ മൈനസ് v t എന്ന സമവാക്യം തൃപ്തിപ്പെടുത്തുന്നതായി നിങ്ങൾക്ക് കാണാം ഈ സാഹചര്യത്തിൽ അത് d സ്ക്വയർ y by d t സ്ക്വയർ എന്നാൽ മൈനസ് A 4 പൈ സ്ക്വയർ v സ്ക്വയർ സൈൻ 2 പൈ x ഓവർ ലാംഡ മൈനസ് v t ആയിരിക്കും കൂടാതെ നിങ്ങൾക്ക് ഇത് തരംഗ സമവാക്യത്തെ nu തവണ ലാംബഡയ്ക്ക് തുല്യമായ വേഗത കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നതായി പരിശോധിക്കാൻ കഴിയും